ബയോ റിയാക്ടറുകളെക്കുറിച്ചുള്ള NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സായ പ്രഭാഷണ നമ്പർ 8 ലേക്ക് സ്വാഗതം അവസാന പ്രഭാഷണം നമ്മൾ പൂർത്തിയാക്കിയപ്പോൾ എൻസൈം ഇൻഹിബിഷനിലെ ഒരു പ്രശ്നം നമ്മൾ പരിശോധിച്ചു അതിനുമുമ്പ് പ്രഭാഷണത്തിൽ തന്നെ നമ്മൾ മൂന്ന് തരത്തിലുള്ള ഇൻഹിബിഷൻസ് കോംപ്റ്റിറ്റിവ് ഇൻഹിബിഷൻ നോൺ കോംപ്റ്റിറ്റിവ് ഇൻഹിബിഷൻ അൺ കോംപ്റ്റിറ്റിവ് ഇൻഹിബിഷൻ എന്നിവ പരിശോധിച്ചിരുന്നു ആദ്യ കേസിൽ എൻസൈമ് ഇൻഹിബിറ്റർ ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ടാമത്തെ കേസിൽ എൻസൈം സബ്സ്റ്റേറ്റ് കോംപ്ലക്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു മൂന്നാമത്തെ കേസിൽ ഇത് രണ്ടും ബന്ധിപ്പിച്ചിരിക്കുന്നു അവസാനത്തെ രണ്ടും കൂടിച്ചേർന്നത് ആയി ഞാൻ കരുതുന്നു പക്ഷേ നമുക്ക് ആശയം ലഭിക്കും എവിടെ ഇൻഹിബിറ്റർ ബൈൻഡുകൾ വ്യത്യാസം വരുത്തി ഇത് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രോബ്ലം നമ്മൾ നോക്കി ഈ പ്രഭാഷണത്തിൽ നമുക്ക് ആ പ്രോബ്ലം നമുക്ക് പരിഹരിക്കാം പ്രാക്ടീസ് പ്രോബ്ലം 2 2 ഒരു എൻസൈം സാധാരണയായി ഒരു S എന്ന സബ്സ്ട്രേറ്റ്നെ P എന്ന ഉൽപ്പന്നമാക്കി മാറ്റുന്നതിൽ മൈക്കിളിസ് മെന്റന്റെ സ്വഭാവം കാണിക്കുന്നു P മുകളിൽ പറഞ്ഞ പരിവർത്തനത്തിനായുള്ള മൈക്കിളിസ് മെന്റൻ പാരാമീറ്ററുകൾ മറ്റൊരു വസ്തുവിന്റെ സാന്നിധ്യത്തിൽ കണക്കാക്കിയപ്പോൾ ഇത് ഇനിപ്പറയുന്ന ഡാറ്റ നൽകി വ്യത്യസ്ത സാന്ദ്രത ഇൻഹിബിഷൻ തരവും ഇൻഹിബിഷൻ സ്ഥിരാങ്കവും നിർണ്ണയിക്കുക വ്യത്യസ്ത ഇൻഹിബിറ്റർ സാന്ദ്രതകളിലെ മൈക്കിളിസ് മെന്റൻ പാരാമീറ്ററുകൾ V m K m എന്നിവ ഈ പട്ടികയിൽ നൽകിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് എങ്ങനെ പോകും നമുക്ക് പതിവായി ചോദ്യങ്ങൾ ചോദിക്കാം എന്താണ് വേണ്ടത് ഇൻഹിബിഷൻ തരവും ഇൻഹിബിഷൻ സ്ഥിരാങ്കവും k I എന്താണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നൽകിയിട്ടുള്ളത് വ്യത്യസ്ത ഇൻഹിബിറ്റർ സാന്ദ്രതകളിലെ V m K m എന്നീ മൈക്കിളിസ് മെന്റൻ പാരാമീറ്ററുകളിലെ ഡാറ്റ നൽകിയിരിക്കുന്നു നൽകിയിരിക്കുന്നവയുമായി എങ്ങനെ ബന്ധിപ്പിക്കാം V m K m എന്നിവ I എന്നതിന് ഒപ്പം വ്യത്യസ്തമായി മാറുന്നു അതായത് പല തരത്തിൽ ഉള്ള ഇൻഹിബിഷനു ആയിട്ടു കോംപ്റ്റിറ്റിവ് ഇൻഹിബിഷനു ആയി K m പുതുക്കിയിരിക്കുന്നു നോൺകോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനു ആയി Vm പരിഷ്ക്കരിക്കപ്പെടുന്നു കൂടാതെ അൺകോംപ്റ്റിറ്റിവ് ഇൻഹിബിഷനു ആയിട്ട് vm km എന്നിവ ഈ രീതിയിൽ പരിഷ്ക്കരിച്ചു ഇതാണ് സംഗ്രഹം ഇന്ഹിബിഷന്റെ തരങ്ങൾ കോംപ്റ്റിറ്റിവ് നോൺകോംപ്റ്റിറ്റിവ് അൺകോംപ്റ്റിറ്റിവ് എന്നിങ്ങനെയാണ് കോംപ്റ്റിറ്റിവ് ഇൻഹിബിഷന്റെ കാര്യത്തിൽ vm അതേപടി നിലനിൽക്കുന്നു അതേസമയം Km മാറുന്നു നോൺകോംപ്റ്റിറ്റിവ് കാര്യത്തിൽ vm മാറുന്നു പക്ഷേ K m മാറുന്നില്ല കൂടാതെ അൺകോംപ്റ്റിറ്റിവ് V m ഉം K m ഉം മാറുന്നു അതിനാൽ ഇവിടെ എന്ത് മാറ്റങ്ങളാണുള്ളതെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ഡാറ്റ നോക്കുകയാണെങ്കിൽനമ്മൾ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ V m മാറില്ല പക്ഷേ K m മാറുന്നു ഇത് ഞാൻ ഇവിടെ കാണിച്ചുതരാം 0 0 5 1 5 10 എന്നീ ഇൻഹിബിറ്റർ ഏകാഗ്രത മാറിയതിനാൽ vmax 0 33 ആയി തുടരും അതേസമയം km മാറി ഇതാണ് നമ്മൾ കണ്ടത്നമ്മൾ നേരത്തെ പറഞ്ഞതും ഡാറ്റയെയാണ് ഇത് കാണിക്കുന്നത് ഇത് വ്യക്തമായും കോംപ്റ്റിറ്റിവ് ഇന്ഹിബിഷന് ഉള്ള ഒരു കേസാണ് അതിനാൽ ഇത് നേരെയാണ് വരുന്നത് അതാണ് ആദ്യത്തെ ചോദ്യം ഇത് ഏത് തരത്തിലുള്ള മത്സരമാണ് അതിനാൽ ഒരു കോംപ്റ്റിറ്റിവ് ഇൻഹിബിഷനു ആയി ഈ Km പുതിയ K m ആണ് KmKmKII Km ഞാൻ ഇത് y mx c എന്ന രൂപത്തിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒരു കൂട്ടം ഡാറ്റയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഓർമ്മിക്കുക അതിനാൽ നമ്മൾ ഡാറ്റയുമായി ഇടപെടുമ്പോഴെല്ലാം നമ്മൾ മുഴുവൻ ഡാറ്റയും ഉപയോഗിക്കേണ്ടതുണ്ട് നമ്മൾ അവിടെ നിന്ന് പോയിന്റുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഡാറ്റ ശേഖരണത്തിലെ പിശകുകൾ നേരിട്ട് കൈമാറ്റം ചെയ്യപ്പെടുകയും വലുതാക്കുകയും ചെയ്യും നമ്മൾ ഡാറ്റാ പോയിന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് പിന്നെ എസ്റ്റിമേറ്റുകളിൽ പിശകുകൾ വലുതായിരിക്കും

അത് ചെയ്യുന്നതിന് ഞാൻ ഇത് ay mx plus c രൂപത്തിൽ നോക്കുന്നു Km എന്നത് y ആണ് ഞാൻ x ഉം ആ സാഹചര്യത്തിലെ സ്ലോപ്പ് Km KI ഉം ഇന്റർസെപ്റ്റ് Km ഉം ആണ് എനിക്ക് വ്യത്യസ്തമായ Vm Km എന്നിവയുടെ ഡാറ്റയുണ്ട് അതിനാൽ ഞാൻ സ്വതന്ത്ര x കോർഡിനേറ്റാണ് Km പരിഷ്ക്കരിച്ച Km ആണ് y കോർഡിനേറ്റ് നമ്മൾ അത് ആ രീതിയിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് Km KI ഇന്റർസെപ്റ്റിൽ നിന്ന് K m എന്നിവ ലഭിക്കും ഇതാണ് നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചത് ഇത് ആവർത്തിക്കുന്നത് നല്ലതാണ് നമുക്ക് ഒരു കൂട്ടം ഡാറ്റ ഉള്ളപ്പോൾ പ്രസക്തമായവയെല്ലാം ഉപയോഗിക്കുന്നതാണ് നല്ലത് I ഉം Km ഉം തമ്മിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ലോപ്പ് Km KI ആയി ലഭിക്കും അതിനാൽ നമുക്ക് KI കണ്ടെത്താനാകും Km വേഴ്സസ് I ന്റെ പ്ലോട്ടിൽ നിന്ന് സമവാക്യം y 0 012x 0 12 ആയിരുന്നു ഈ കേസിൽ y Km ആണ് x is I അതിനാൽ Km 0 012 I 0 12 സമവാക്യത്തിൽ നിന്ന് ഇന്റർസെപ്റ്റ് Km 0 012 Km0 012 KI 0 01210mM the inhibitor constant